നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി എന്ന കോഴ്സിലെ ഏഴാമത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ലെക്ച്ചറുകളിലായി ECM ശൃംഖലകളുടെ ഘടനാപരമായ സവിശേഷതകൾ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവ ക്രമീകരിക്കുന്നതിൽ ടോപ്പോഗ്രാഫി അഥവാ കോശങ്ങളുടെ അലൈൻമെന്റ് സ്റ്റിഫ്നെസ്സ് മറ്റ് രാസഘടനകൾ പോലുള്ള സൂചകങ്ങൾ ECM എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നും നമ്മൾ ചർച്ച നടത്തിയിരുന്നു ഉദാഹരണത്തിന് കൊളാജെൻ ശൃംഖലകളുടെ സാന്ദ്രത അവയുടെ ഭൌതികമായ സ്വഭാവഗുണങ്ങളെ ഗണ്യമായ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത അങ്ങനെയെങ്കിൽ മേല്പറഞ്ഞ ECM ശൃംഖലകളുടെ സവിശേഷ സ്വഭാവഗുണങ്ങളെ എപ്രകാരം അളന്ന് തിട്ടപ്പെടുത്താമെന്ന് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ഏതാനും ലെക്ച്ചറുകളിലായി ബയോ പോളിമർ ശൃംഖലകളുടെ മെക്കാനിക്കൽ ഗുണഗണങ്ങൾ നിർണ്ണയിക്കുന്നതനായിട്ടുള്ള മാർഗ്ഗങ്ങളെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയുണ്ടായി ECM ശൃംഖലകളെ ഖരരൂപത്തിലുള്ളവയെന്നോ അല്ലെങ്കിൽ ദ്രവ്യാവസ്ഥയിലുള്ളതെന്നോ വേർതിരിക്കുവാനുള്ള ചർച്ചകളും കഴിഞ്ഞ ലെക്ച്ചറിൽ പുരോഗമിച്ചിരുന്നു ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതിനായി നമ്മൾ ലളിതമായ ഒരു സ്പ്രിങിന്റെ ഉദാഹരണമാണ് എടുത്തിരുന്നത് നിയതമായ ഒരു ഫോഴ്സിന്റെ പ്രഭാവമുണ്ടാകുമ്പോൾ പ്രതികരിക്കുന്ന രീതിയാണ് ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിനെ ദ്രവ്യാവസ്ഥയിലുള്ള വസ്തുവിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നത് ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഫോഴ്സ് പ്രയോഗിക്കപ്പെടുമ്പോൾ ഞൊടിയിടയിൽ പ്രകടമാകുന്ന ഡിഫോർമേഷനെന്നത് ഫോഴ്സ് തുടർന്ന് പ്രയോഗിക്കപ്പെടുന്ന കാലത്തോളം നിലനിൽക്കുമെന്നതാണ് മേല്പറഞ്ഞ ഫോഴ്സ് പിൻവലിക്കുമ്പോൾ വസ്തു അതിന്റെ പൂർവ്വഘടനയിലേക്ക് മടങ്ങിപോകുന്നതായി നമുക്ക് കാണാനാകുന്നു എന്നതാണ് വസ്തുത വസ്തുവിൽ ഡിഫോർമേഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നും സ്ട്രെസ് സ്ട്രെയിൻ എന്നിവ തമ്മിലുള്ള ബന്ധം എന്താണെന്നും വിശദീകരിക്കുന്നതിനായി നമ്മൾ ലീനിയർ ഇലാസ്റ്റിക് അതുപോലെ നോൺ ലീനിയർ ഇലാസ്റ്റിക് എന്നീ പദപ്രയോഗങ്ങൾ നടത്തിയിരുന്നു എന്താണ് ഇത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കാണുന്നത് ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് ഇവിടെ സ്ട്രെയിൻ ε എന്നത് വസ്തുവിന്റെ വിപുലീകൃതമായ നീളത്തിനെ യഥാർത്ഥ നീളം കൊണ്ട് ഹരിച്ചാൽ ലഭ്യമാകുന്ന തുകയാണ് ഇവിടെ FA അഥവാ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നാം ഉദ്ദേശിക്കുന്ന സ്ട്രെസിന്റെ നിർവചനം ഈ കാണുന്ന സ്ട്രെസ്സ് vs സ്ട്രെയിൻ കർവ് ലീനിയറാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി Young's Modulus of Elasticity എന്ന് നമുക്ക് ലഭ്യമാകുന്നു ലീനിയറായ വസ്തുക്കളുടെ കാര്യത്തിലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നാൽ കർവ് ഈ കാണുന്ന രീതിയിലാണെങ്കിൽ ഇത് നോൺ ലീനിയർ ഇലാസ്റ്റിസിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ സ്ലോപ്പ് നിരന്തരം മാറുന്നുണ്ട് എന്നതാണ് വസ്തുത ഖരരൂപത്തിലുള്ള വസ്തുവിൽ ഫോഴ്സ് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായാൽ അവ തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നതായി നമുക്ക് കാണാനാകും എന്നാൽ ദ്രവരൂപത്തിലുള്ള വസ്തുവിൽ സ്ഥിതി മറ്റൊന്നാണ് നിയതമായ ബലം പ്രയോഗിക്കുമ്പോൾ അവ ഒഴുക്ക് തുടരുകയും എന്നാൽ മേല്പറഞ്ഞ ഫോഴ്സ് പിൻവലിക്കുമ്പോൾ പൂർവ്വഗതിയിലേക്ക് അവ മടങ്ങുന്നതായി നമുക്ക് കാണാനാകില്ല എന്ന് മാത്രമല്ല അവ തത്സ്ഥിയിൽ തുടരുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം ഖരരൂപത്തിലുള്ള വസ്തു ടെൻഷനിലോ അല്ലെങ്കിൽ കംപ്രഷനിലോ ആണെങ്കിൽ ഉള്ള ചിത്രമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഇവിടെ E എന്നത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ ആണ് സൂചിപ്പിക്കുന്നത് τ എന്നത് നമ്മൾ പ്രയോഗിക്കുന്ന ഷിയർ സ്ട്രെസ് ആണെങ്കിൽ τ Gγ എന്ന് സമവാക്യം നമുക്കിവിടെ രേഖപെടുത്താവുന്നതാണ് മേല്പറഞ്ഞ ഷിയർ സ്ട്രെസെന്നത് ഈ കാണുന്ന ടാൻജെൻഷ്യൽ ദിശയിലാണ് പ്രയോഗിക്കപ്പെടുന്നത് ഇവിടെ G എന്നത് ഷിയർ സ്ട്രെയിനും γ എന്നത് ഷിയർ മോഡുലസുമാണ് ഇൻ കംപ്രസ്സിബിൾ വസ്തുക്കളിൽ E യുടെ മൂല്യമെന്നത് G യുടെ മൂന്ന് മടങ്ങാണെന്ന് ഞാൻ കഴിഞ്ഞ ലെക്ച്ചറിൽ സൂചിപ്പിച്ചിരുന്നു അതായത് അവ രണ്ടും പരസ്പര ബന്ധിതമാണെന്ന് സാരം ബയോ പോളിമർ ശൃംഖലകൾ സോളിഡാണോ അതോ ലിക്വിഡ് രൂപത്തിലാണോ എന്ന ചോദ്യത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിനിൽക്കുന്നത് മേല്പറഞ്ഞ രണ്ട് അവസ്ഥകളുടെയും സ്വഭാവ സവിശേഷതകൾ പ്രകടമായതിനാൽ തന്നെ ഇവയെ നമുക്ക് വിസ്കോ ഇലാസ്റ്റിക് എന്ന് അഭിസംബോധന ചെയ്യാവുന്നതാണ് ഒരു വിസ്കോ ഇലാസ്റ്റിക് വസ്തുവിൽ നിയതമായ ബലം പ്രയോഗിക്കുമ്പോൾ അവയിൽ ഞൊടിയിടയിൽ പ്രതിഫലിക്കുന്ന പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ സ്വഭാവ സവിശേഷതകളുടെ ഇലാസ്റ്റിക് കംപോണെന്റിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവയുടെ സമയക്രമമെന്നത് വിസ്കസ് കംപോണെന്റിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി നമുക്ക് ഡിഫോർമേഷനുകളെ കുറിച്ച് ചർച്ചചെയ്യാം ഏതൊരു ശൃംഖലയിലും നിയതമായ ഒരു ഫോഴ്സിന്റെ പ്രഭാവമുണ്ടാകുമ്പോൾ അവയിൽ രണ്ട് തരത്തിലാണ് മാറ്റം സംഭവിക്കുന്നത് ഒന്ന് അതിന്റെ വ്യാപ്തിയിലാണെങ്കിൽ മറ്റൊന്ന് അതിന്റെ രൂപഘടനയിലാണ് പ്രകടമാകുന്നത് ബയോ പോളിമറുകളുടെ മാക്രോ മോളിക്യുലർ ഘടനയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെന്ന് കരുതുക അതായത് ഏതാണ്ട് അവയെ നമ്മൾ നൂറ് മൈക്രോൺ പരിധിയിൽ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ അവയുടെ വ്യാപ്തിയിൽ ഗണ്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ മൈക്രോ അവസ്ഥയിൽ സ്ഥിതി മറ്റൊന്നാണ് ആയതിനാൽ മേല്പറഞ്ഞ സാഹചര്യത്തിൽ മൈക്രോ റിയോളജി മാക്രോ റിയോളജി എന്നിങ്ങനെ രണ്ട് മേഖലകൾ രൂപപ്പെടുന്നു ശൃംഖലയിൽ ജലാംശമുള്ളതിനാൽ തന്നെ മാക്രോ അവസ്ഥയിൽ വ്യാപ്തിയുടെ നിരക്കിൽ മാറ്റങ്ങളിലൊന്നും സംഭവിക്കുന്നില്ല എങ്കിലും അവയുടെ രൂപഘടനയിൽ ഗണ്യമായ വ്യത്യാസങ്ങൾ പ്രകടമാകുന്നുണ്ട് അല്പം കൂടി ഊന്നിപ്പറയുകയാണെങ്കിൽ വസ്തുവിന്റെ ഇലാസ്റ്റിക് ആയ സ്വഭാവ ഗുണങ്ങൾ പിന്തുടരുന്നതിനായി നമുക്ക് τ Gγ എന്ന സമവാക്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് γ എന്നത് ഷിയർ സ്ട്രെയിനും τ ഷിയർ സ്ട്രെസും G എന്നത് ഷിയർ മോഡുലസുമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ദ്രവരൂപത്തിലുള്ള വസ്തുവിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നാം ന്യൂട്ടന്റെ വിസ്കോസിറ്റി നിയമം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നതാണ് ഈ നിയമം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഷിയറിന്റെയല്ല മറിച്ച് ഷിയർ റേറ്റിന്റെ സ്വാധീനമാണ് പ്രകടമാകുന്നത് സമവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന µ എന്നത് യഥാർത്ഥത്തിൽ വിസ്കോസിറ്റിയുടെ കോയെഫിഷന്റാണ് ഇനി ഞാൻ ദ്രവരൂപത്തിലുള്ള ഒരു ഇലാസ്റ്റിക് വസ്തുവിന്റെ കാര്യമെടുക്കുകയാണെന്ന് കരുതുക ഇതിനുമേൽ ഞാൻ ഒരു കോൺസ്റ്റന്റായ സ്ട്രെസ് പ്രയോഗിക്കുകയാണെങ്കിൽ τ Gγ എന്ന സമവാക്യം നമുക്ക് ലഭ്യമാകുന്നു ഇവ പരസ്പര ബന്ധിതമായതിനാൽ തന്നെ τ യുടെ നിരക്ക് കോൺസ്റ്റന്റാകുമ്പോൾ സ്വാഭാവികമായും അത് γ യിലും പ്രതിഫലിക്കും G യുടെ മൂല്യം കോൺസ്റ്റന്റായാൽ γ ന്റെ നിരക്ക് പൂജ്യത്തോടടുക്കുന്നതായി നമുക്ക് കാണാനാകും ഈ കാണുന്ന τ µγ എന്ന സമവാക്യം നമുക്കൊന്ന് കണക്കിലെടുക്കാം മേല്പറഞ്ഞ സാഹചര്യത്തിൽ ഖരരൂപത്തിലുള്ള ഒരു വസ്തുവിനെ ദ്രവ്യാവസ്ഥയിലുള്ള വസ്തുവുമായി താരതമ്യം ചെയ്യുകയാണെന്ന് കരുതുക ഇവിടെ γ ന്റെ മൂല്യം പൂജ്യത്തോടടുക്കുമ്പോൾ µ വിന്റെ നിരക്ക് ഇൻഫിനിറ്റിയോട് അടുക്കുന്നുതായി നമുക്ക് കാണാൻ സാധിക്കും ആയതിനാൽ ഉൽകൃഷ്ടമായ ഒരു ഇലാസ്റ്റിക് വസ്തുവിന്റെ വിസ്കോസിറ്റിയുടെ നിരക്കെന്നത് ഇൻഫിനിറ്റിക്ക് സമാനമായിരിക്കും എന്ന് നമുക്ക് പറയാവുന്നതാണ് വസ്തു ഇലാസ്റ്റിക് പ്രകൃതമുള്ള ഒന്നാണെങ്കിൽ അവയുടെ വിസ്കോസിറ്റിയുടെ മൂല്യം ഇൻഫിനിറ്റിക്ക് സമമാകുകയും റിയോളജി പഠനങ്ങളുടെ ഭാഗമായി അവയിൽ നാം എത്ര മടങ്ങ് ഷിയർ സുസ്ഥിരമായി നൽകിയാലും നമുക്ക് ലഭ്യമാകുന്ന പ്രതികരണമെന്നത് മേല്പറഞ്ഞ രീതിക്ക് സമാനമായിരിക്കും എന്നതാണ് വസ്തുത എന്നാൽ നമ്മുടെ കൈവശം ECM ശൃംഖലകൾ പോലെയുള്ള ലോലവും ദുർബലവുമായ വസ്തുക്കൾ ഉണ്ടെന്ന് ധരിക്കുക അവയിൽ മേല്പറഞ്ഞത് പോലെയുള്ള സുസ്ഥിരമായ ഷിയർ പ്രയോഗിക്കുകയാണെങ്കിൽ അവ പതിയെ തകർന്ന് വീഴുന്നതായി നമുക്ക് കാണാനാകും അത്തരമൊരു സന്ദർഭത്തിൽ അവയുടെ ഭൌതികമായ സവിശേഷതകൾ നിർണ്ണയിക്കുന്നതിനുള്ള സാധ്യത തീർത്തും പരുങ്ങലിലാകുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഓസിലേറ്ററി മെഷർമെൻറ് നടത്തുന്നതാണ് അഭികാമ്യം ഇവിടെ എഴുതി കാണുന്ന പോലെ ഇന്നലെ ഞാൻ ചില ലഘു പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഓസിലേറ്ററി മെഷർമെന്റുകൾ നടത്തുമ്പോൾ ഈ കാണുന്ന γ യുടെ മൂല്യം കോൺസ്റ്റന്റല്ല എന്നിരുന്നാലും ഒരു സൈൻ കർവിന്റെ മാതൃകയിലാണ് ഇവ എനിക്ക് ലഭ്യമായത് ഇവിടെ γ0 എന്നത് ആംപ്ലിട്യൂഡ് ആണ് ഇവിടെ നമുക്ക് ω എന്ന ഫ്രീക്വൻസിയുള്ള ഒരു സൈൻ കർവ് ലഭ്യമാകുന്നു നമുക്ക് മുൻപിലുള്ള വസ്തുവിന്റെ പ്രകൃതം വിസ്കോ ഇലാസ്റ്റിക് ആകണമെന്നുണ്ടെകിൽ σ യുടെ നിരക്ക് ഫേസ് ഷിഫ്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നതായിരിക്കണം അപ്പോൾ എന്താണ് മേൽ സൂചിപ്പിച്ച ഫേസ് ഷിഫ്റ്റ് ഞാൻ ഇവിടെ ഈ വരക്കുന്നത് സമയത്തിന്റെയും സ്ട്രെയ്നിന്റെയും നിരക്കുകളാണ് അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ ലഭ്യമാകുന്നത് വസ്തുവിന്റെ സ്ട്രെസ് പ്രൊഫൈൽ ആണ് ഇവിടെ വ്യക്തമാകുന്ന ഈ ഡിലെയുടെ മൂല്യം നമുക്ക് δ എന്ന് രേഖപെടുത്താം ചുരുക്കിപ്പറഞ്ഞാൽ ഇവിടെ δ എന്ന തോതിൽ ഫേസ് ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട് എന്ന് സാരം വസ്തുവിന്റെ പ്രകൃതമെന്നത് തീർത്തും ഇലാസ്റ്റിക് ആണെങ്കിൽ അവയുടെ δ യുടെ വില പൂജ്യമാകുന്നു എന്നാൽ വസ്തുവിന്റെ സ്വഭാവം ദ്രവ്യാവസ്ഥക്ക് തുല്യമാണെങ്കിൽ δ യുടെ നിരക്കിൽ മുൻപ് കണ്ടെതിനേക്കാൾ അല്പം വർദ്ധനവ് പ്രകടമാകുന്നു പ്രസ്തുത സമവാക്യത്തിനെ ഖണ്ഡിച്ച് ശേഷം വിപുലീകരിച്ച് എഴുതുകയാണെങ്കിൽ ഇത് σ γ0G'sinωt G"cosωt എന്ന് നമുക്ക് ലഭ്യമാകുന്നു ഇവിടെ ആദ്യം കാണപ്പെടുന്ന G'sinωt എന്ന ഭാഗം സ്ട്രെയിൻ ഫീൽഡിനോട് താദാത്മ്യം പുലർത്തുമ്പോൾ ഒരേ ഫേസിലാണ് കാണപ്പെടുന്നത് ദ്രവ്യാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവ ഒഴുകുന്നതായി നമുക്ക് കാണാനാകുമെങ്കിലും മേല്പറഞ്ഞ സ്ട്രെസിന്റെ അഭാവത്തിൽ അവ പൂർവ്വഘടനയിലേക്ക് മടങ്ങുന്നില്ല എന്നതാണ് വസ്തുത ഇവിടെ വസ്തുവിന് ഒഴുക്ക് ഉണ്ടാകുവാനായി നൽകുന്ന ഊർജം അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതിനാലാണ് നമ്മൾ G" നെ ലോസ്സ് മോഡുലസ് എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഷിയർ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനുള്ള പരീക്ഷണമായതിനാൽ തന്നെ യഥാർത്ഥത്തിൽ ഇത് ലോസ്സ് ഷിയർ മോഡുലസാണ് ഇവിടെ ഈ കാണുന്ന G' എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റോറേജ് ഷിയർ മോഡുലസാണ് ഓസ്സിലേറ്ററി പരീക്ഷണങ്ങൾക്കായി നമുക്ക് ഈ കാണുന്ന റിയോമീറ്ററെന്ന ഉപകരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരു രേഖാചിത്രത്തിന്റെ സഹായത്താൽ റിയോമീറ്ററിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ചർച്ച നടത്തിയിരുന്നു ഇവയ്ക്ക് അടിസ്ഥാനപരമായി ഒരു കോൺ പ്ലേറ്റ് ഘടനയാണുള്ളത് ഈ കാണുന്ന താഴ്ഭാഗം ഉറപ്പിച്ച് വെച്ച രീതിയിലാണുള്ളത് എന്നാൽ ഇതിന്റെ പരന്ന മുകൾ ഭാഗമാകട്ടെ ഭ്രമണം ചെയ്യുന്ന രീതിലായാണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഘടനപ്രകാരം പരന്ന ഭാഗത്തിന്റെ കോണാകൃതിയിലുള്ള അടിവശം സാംപിളുമായി അടുത്തുനിൽക്കുന്ന രീതിയിലാണ് രൂപകൽപന ചെയ്തിരിക്കുന്നത് സാംപിളിനെ ഇവയ്ക്കിടയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് മേൽ സൂചിപ്പിച്ചത് പോലെ ഇതിന്റെ ഈ കാണുന്ന താഴ്ഭാഗം നിശ്ചലവും എന്നാൽ മുകൾ ഭാഗം നിയതമായ തോതിൽ ഭ്രമണം ചെയ്യുന്നതുമാണ് മേല്പറഞ്ഞ കോൺ പ്ലേറ്റ് റിയോമീറ്ററിൽ നിന്നും വിഭിന്നമായി പാരലൽ പ്ലേറ്റ് ഘടനയിലുള്ള റിയോമീറ്ററും ഉപയോഗത്തിലുണ്ട് കോണാകൃതിയിലുള്ള ഘടനയ്ക്ക് പകരമായി മുകൾ ഭാഗത്ത് ഈ കാണുന്ന രീതിയിലുള്ള ആകൃതിയും ഭ്രമണം സാധ്യമാകുന്ന ഒരു രൂപഘടനയുമാണ് ഇതിനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ഒരു കോൺ പ്ലേറ്റ് റിയോമീറ്ററും ഒരു പാരലൽ പ്ലേറ്റ് റിയോമീറ്ററും ഉണ്ടെന്ന് കരുതുക ഒരു കോൺ പ്ലേറ്റ് റിയോമീറ്ററിൽ നമ്മൾ വെക്കുന്ന സാംപിളിന്റെ മുകൾ ഭാഗത്ത് ഉടനീളം ഒരേ ക്രമത്തിലും ശക്തിയിലും ഒരുപോലെ സ്ട്രെസ് ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ സാധിക്കും എന്നാൽ ഒരു പാരലൽ പ്ലേറ്റ് റിയോമീറ്ററിൽ ഇത് സാധ്യമാകണമെന്ന് നിർബന്ധമില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രയോഗിക്കപ്പെടുന്ന സ്ട്രെയിനിന്റെ ഏതാണ്ട് മുഴുവൻ പ്രവർത്തനവും സാംപിളിന്റെ അരികിലേക്ക് വ്യാപിക്കുന്നതായാണ് നമുക്ക് കാണാനാകുക അതായത് സാംപിളിന്റെ നടുവിൽ കാര്യമായ തോതിൽ സ്ട്രെസ് അനുഭവപ്പെടുകയില്ലെന്ന് മാത്രമല്ല അതിന്റെ നിരക്ക് പൂജ്യമായിരിക്കുകയും ചെയ്യും ഈയൊരു കാരണം മുൻനിർത്തിയാണ് പ്രായോഗികമായും നമ്മൾ ഒരു കോൺ പ്ലേറ്റ് റെയോമീറ്റർ തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് G' അല്ലെങ്കിൽ G" ന്റെ നിരക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധാരണഗതിയിൽ നമ്മൾ ഇതിന്റെ ആംഗുലർ പൊസിഷനാണ് കണക്കിലെടുക്കുന്നത് ചില സൂചകങ്ങളെ ആധാരമാക്കിയാണ് മേല്പറഞ്ഞ ആംഗുലർ പൊസിഷൻ നമ്മൾ കണക്കാക്കുന്നത് നിയതമായ ഫ്രീക്വൻസിയിൽ സാംപിളിനെ കറക്കുമ്പോൾ ഉടലെടുക്കുന്ന ടോർക്കാണ് മറ്റൊരു ഘടകം ഈ സാഹചര്യത്തിൽ രണ്ട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ റിയോമീറ്റർ എന്ന ഉപകരണം ഉപയോഗപ്പെടുത്തി നമുക്ക് സാധ്യമാണ് ഒന്ന് നിയന്ത്രിത റേറ്റ് പരീക്ഷണമാണ് നേരത്തെ സൂചിപ്പിച്ചത് പോലെ നിയതമായ ഒരു ഫ്രീക്വൻസിയിൽ സാംപിളിനെ കറക്കുകയും അതിലൂടെ എത്ര നിരക്കിൽ ടോർക്ക് അനുഭവപ്പെട്ടാലാണ് മേല്പറഞ്ഞ നിരക്കിലുള്ള ഫ്രീക്വൻസിയിൽ ഭ്രമണത്തിന് തുടർച്ചയുണ്ടാകുക എന്ന് കണ്ടെത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ സാംപിളിൽ അനുഭവപ്പെടുന്ന സ്ട്രെയ്നിന്റെ തോത് ക്രമീകരിക്കുവാൻ ഇതിലൂടെ നമുക്ക് സാധ്യമാകുന്നു എന്നതാണ് വസ്തുത ഇതിന് സമാന്തരമായ രണ്ടാമത്തെ മാർഗ്ഗമെന്നത് നിയന്ത്രിത സ്ട്രെസ്സ്ഡ് ഓപ്പറേഷനാണ് ഇവിടെ നമുക്ക് സാംപിളിൽ രൂപപ്പെടുന്ന ടോർക്കിന്റെ നിരക്ക് നിയന്ത്രണവിധേയമാക്കുവാൻ കഴിയും മാത്രമല്ല സാംപിളിന് മുകളിൽ എത്രമാത്രം അളവിൽ സ്ട്രെയിൻ പ്രയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് അളന്ന് തിട്ടപ്പെടുത്തുവാനും നമുക്ക് ഇതിലൂടെ സാധ്യമാകുന്നു ആയതിനാൽ റിയോമീറ്റർ എന്ന ഉപകരണം ഉപയോഗപ്പെടുത്തി അളന്ന് തിട്ടപ്പെടുത്താവുന്ന പരിമാണങ്ങളുടെ ഒരു വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് ഇനി നീങ്ങാം വസ്തു ഇലാസ്റ്റിക് ആണെങ്കിൽ ഉടലെടുക്കുന്ന സ്ട്രെസ് സ്ട്രെയിൻ ബന്ധത്തിന്റെ കാര്യം തന്നെയെടുക്കാം ഇവിടെ നമുക്ക് നിയന്ത്രിത റേറ്റ് പരീക്ഷണമോ അല്ലെങ്കിൽ നിയന്ത്രിത സ്ട്രെസ്സ്ഡ് ഓപ്പറേഷനോ നടത്താവുന്നതാണ് ഇതിൽ ഏത് മാർഗ്ഗവും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഇവിടെ രണ്ട് കർവുകൾ ദൃശ്യമാണ് സ്ട്രെയ്നിൽ നിന്നും തീർത്തും സ്വതന്ത്രമായി നിലനിൽക്കുന്ന കോൺസ്റ്റന്റ് സ്ട്രെസ്സിനെയാണ് ഇതിൽ നീല നിറത്തിലുള്ള കർവ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ സ്ലോപ്പ് കണ്ടെത്താനായാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മോഡുലസിന്റെ തുകയാണ് ലഭ്യമാകുന്നത് ഒരു ലീനിയർ ഇലാസ്റ്റിക് പ്രകൃതമുള്ള വസ്തുവിൽ പ്രകടമാകുന്ന പ്രതികരണങ്ങളാണിവ ചുരുക്കിപ്പറഞ്ഞാൽ ഇവിടെ സ്ട്രെയ്നിന്റെ നിരക്കിൽ ഗണ്യമായ വർദ്ധനവ് കൊണ്ടുവന്നാലും അവ ഈ രീതിയിലെ പ്രതികരിക്കൂ എന്നതാണ് വസ്തുത എന്നാൽ ഒരു നോൺ ലീനിയർ ഇലാസ്റ്റിക് വസ്തുവിന്റെ പ്രതികരണമാണ് ഇവിടെ പ്രകടമാകുന്നത് ഇതിൽ കാണുന്ന കർവിന്റെ സ്ലോപ്പ് നിരന്തരം വ്യതിചലിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ് സ്ട്രെയ്നിനെ ഇൻപുട് ആക്കിയുള്ള സ്ട്രെസ് റിലാക്സേഷൻ പരീക്ഷണമാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു തരത്തിലുള്ള പരീക്ഷണമെന്നത് ഒരു പ്രത്യേക ഭാഗത്ത് നിയതമായ ഒരു സ്ട്രെയിൻ നൽകുകയും നിശ്ചിത നേരത്തേക്ക് അവ തുടരുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ പിന്തുടരുന്നത് ഇതിലൂടെ സിസ്റ്റത്തിന്റെ പ്രതികരണം നമുക്ക് സസൂക്ഷ്മം വീക്ഷിക്കാൻ സാധിക്കുന്നു എന്നതാണ് വസ്തുത മേല്പറഞ്ഞ സ്ട്രെസ് റിലാക്സേഷൻ പരീക്ഷണങ്ങൾ സാധാരണ ഗതിയിൽ വിസ്കോ ഇലാസ്റ്റിക് സാംപിളുകളിലാണ് പ്രയോഗിക്കുന്നത് ഇവയുടെ പ്രതികരണങ്ങളെ സ്ട്രെസ്സിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ആരംഭത്തിൽ നമുക്ക് ഞൊടിയിടയിൽ പ്രതികരണം ലഭ്യമാകുകയും പിന്നീട് സ്ട്രെസ്സിന്റെ തോത് ക്രമാധീതമായി കുറയുന്നതായും നമുക്ക് കാണാനാകുന്നു എന്ത് കൊണ്ടാണ് സ്ട്രെസ്സിന്റെ നിരക്കിൽ മേല്പറഞ്ഞ രീതിയിലുള്ള ഒരു കൂപ്പുകുത്തൽ പ്രകടമാകുന്നത് ചില ആന്തരിക പുനഃക്രമീകരണങ്ങൾ റിലാക്സേഷന്റെ ഭാഗമായി ഇവയുടെ ശൃംഖലകളിൽ രൂപപെടുന്നുണ്ടാകാം എന്ന സൂചനയിൽ നിന്നാണ് സ്ട്രെസ് റിലാക്സേഷൻ എന്നൊരു പദപ്രയോഗം തന്നെ ഉടലെടുക്കുന്നത് ഇവിടെ നമുക്ക് മുൻപിൽ രണ്ട് സ്ഥിതിവിശേഷങ്ങളാണ് ഉള്ളത് ഇതിനായി ഞാൻ വീണ്ടും രണ്ട് കർവുകൾ വരച്ചിട്ടുണ്ട് ഈ കാണുന്ന നീല നിറത്തിലുള്ള കർവ് താഴ്ന്ന് വരുന്നുണ്ടെങ്കിലും പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക നിരക്കിലെത്തുമ്പോൾ പൂരിതമാകുന്നുണ്ട് എന്നാൽ ചുവന്ന കർവിന്റെ സ്ഥിതി മറ്റൊന്നാണ് ഇവിടെ താഴോട്ടിറങ്ങുന്ന കർവ് സാവധാനം പൂജ്യത്തോടടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനാകുന്നത് മേല്പറഞ്ഞ ചുവന്ന കർവ് യഥാർത്ഥത്തിൽ ഒരു വിസ്കോ ഇലാസ്റ്റിക് ഫ്ലൂയിഡിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പൂജ്യത്തോടടുക്കാതെ മറ്റേതോ നിരക്കിൽ വെച്ച് തന്നെ പൂരിതമായ നീല നിറത്തിലുള്ള കർവാകട്ടെ അക്ഷരാർത്ഥത്തിൽ വിസ്കോ ഇലാസ്റ്റിക് സോളിഡിന്റെ സ്വഭാവവൈഭവങ്ങളെയാണ് ദൃശ്യവല്ക്കരിക്കുന്നത് ഇതിൽ ഈ കാണുന്നതാണ് ശൃംഖലയുടെ ഈക്വിലിബ്രിയം മോഡുലസ് ഇനി നമുക്ക് ഈ കാണുന്ന സ്ഥിതിയിലേക്ക് കടക്കാം ഇവിടെ സ്ട്രെയിൻ ഒരു വർദ്ധിത നിരക്കിലാണ് നിലനിൽക്കുന്നത് വളരെ ചടുലമായി ഡിഫോർമേഷൻ സംഭവിക്കുമ്പോഴാണ് സ്ട്രെയ്നിന്റെ നിരക്ക് മേല്പറഞ്ഞ രീതിയിലേക്ക് വർദ്ധിക്കുന്നത് വർദ്ധനവ് പ്രകടമായാൽ പിന്നെ ആ തോതിൽ തന്നെ നമുക്കതിനെ നിലനിർത്താൻ ശ്രമിക്കാവുന്നതാണ് മറ്റൊരു പരീക്ഷണത്തിൽ നാം ഇതിനെ നിശ്ചിതമായ സമയത്തേക്ക് നിയതമായ ഫോഴ്സിന്റെ പ്രഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതിലൂടെ സിസ്റ്റം എപ്രകാരം പ്രതികരിക്കുന്നു എന്നും നാം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് കോൺസ്റ്റന്റ് സ്ട്രെസ്സിൽ അകപ്പെട്ട കോശങ്ങളുടെ സ്വഭാവസവിശേഷതകൾ കണ്ടെത്തുന്നതിനായി പ്രയോജനപ്പെടുത്തുന്ന ഇത്തരം പരീക്ഷണങ്ങളെ പൊതുവായി ക്രീപ്പ് എക്സ്പെരിമെന്റസ് എന്നാണ് അഭിസംബധന ചെയ്യുന്നത് ഉദാഹരണത്തിന് മനുഷ്യശരീരത്തിലുള്ള അസ്ഥികൾ സുസ്ഥിരമായ കംപ്രഷനിലാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് അറിയാം അതുപോലെ തന്നെ രക്തധമനികളിൽ തുടർച്ചയായ രക്തയോട്ടം ഉള്ളതിനാൽ അവയിലും നിയതമായ തോതിൽ രക്തസമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ട് ഇത്തരം പരീക്ഷണങ്ങളുടെ ഭാഗമായി സ്പെസിമെനിൽ നിശ്ചിത ദൈർഘ്യത്തേക്ക് നിയതമായ തോതിൽ ഒരു കോൺസ്റ്റന്റ് സ്ട്രെസ് ചെലുത്തുന്നതിലൂടെ അവയിൽ ഉടലെടുക്കുന്ന സ്ട്രെയ്നിന്റെ നിരക്ക് നമുക്ക് ഗണിക്കാനാകും മേല്പറഞ്ഞ സന്ദർഭത്തിൽ നിയതമായ ഒരു സ്ട്രെസ് പ്രയോഗിക്കുമ്പോൾ വസ്തുവിൽ ഞൊടിയിടയിൽ അനുഭവപ്പെടുന്ന സ്ട്രെയിൻ എന്നത് അക്ഷരാർത്ഥത്തിൽ വസ്തുവിന്റെ ഇലാസ്റ്റിക് സ്വഭാവ ഗുണത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഉടലെടുക്കുന്ന സ്ട്രെയിൻ എന്നത് ഏകദേശം ലീനിയറായ മാതൃകയിൽ പതിയെ വർദ്ധനവ് പ്രകടമാക്കുകയും ക്രമേണ പരമാവധി നിരക്കിലേക്ക് ഉയരുന്നതായും നമുക്ക് വ്യക്തമാകുന്നു ഈ കാണുന്ന കർവിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങളെ ക്രീപ്പ് എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് കർവിന്റെ അടുത്ത രണ്ട് ഭാഗങ്ങളിലായി സ്ട്രെസ് പൂജ്യത്തിലേക്ക് അടുക്കുന്നതായി നമുക്ക് കാണാനാകും നേരത്തെ ലഭ്യമായതിന് സമാനമായ പ്രതികരണമാണെങ്കിലും ഇത് വിപരീതദിശയിൽ പ്രകടമാകുന്ന ഒരു ഡ്രോപ്പ് ആണെന്ന വ്യത്യാസം മാത്രമാണ് ഇവിടെയുള്ളത് ശൃംഖലയുടെ ഇലാസ്റ്റിക് ഘടകങ്ങളിൽ അനുഭവപ്പെടുന്ന റിലാക്സേഷനാണ് അക്ഷരാർത്ഥത്തിൽ മേല്പറഞ്ഞ ഡ്രോപ്പിന് നിധാനമാകുന്നത് വീണ്ടും ഇവിടെ പ്രകടമാകുന്ന സ്ട്രെയ്നിന്റെ ഡ്രോപ്പെന്നത് പൂജ്യത്തോടടുക്കുന്നതിന് പകരമായി ഒരു നിയതമായ നിരക്കിൽ പൂരിതമാകുകയാണ് ചെയ്യുന്നത് ഇത് മേൽ സൂചിപ്പിച്ച പ്രതികരണത്തിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടെടുക്കാൻ കഴിയാത്ത ഒന്നാണ് പ്ലാസ്റ്റിക് ഫ്ലോയുമായി സംബന്ധിക്കുന്ന ഒന്നാണ് ഞാൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് മേല്പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഫ്രീക്വൻസി സ്വീപ്പ് എന്ന വിശേഷണമുള്ള പരീക്ഷണങ്ങൾ സംഘടിപ്പിക്കാവുന്നതാണ് ഇവ സർവ്വസാധാരണമായി പ്രചാരത്തിലുള്ള പരീക്ഷണങ്ങളാണ് നിശ്ചിത ദൈർഘ്യത്തേക്ക് നിയതമായ തോതിൽ ഒരു കോൺസ്റ്റന്റ് സ്ട്രെസ് ചെലുത്തുന്നതിലൂടെ കൊളാജെൻ ശൃംഖലകളിൽ അനുഭവപ്പെടാനിടയുള്ള സ്ട്രെയ്നിന്റെ നിരക്ക് നമുക്ക് ഇതിലൂടെ അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കും G' G" എന്നീ ഘടകങ്ങളെ ഫ്രീക്വൻസിയുടെ ഫങ്ഷനായാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത് ഒരു ലോഗ് സ്കെയിലിനെ ആധാരമാക്കി 0 001 0 11 10 100 എന്ന നിരക്കിലാണ് നമ്മൾ ഫ്രീക്വൻസിയെ ഇവിടെ കാഴ്ചവെക്കുന്നത് സാമാന്യം ദൈർഘ്യമേറിയ ഫ്രീക്വൻസി ശ്രേണികളിലും നമുക്ക് ശൃംഖലകളുടെ സ്വഭാവവൈഭവങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം ഈ കാണുന്ന ഫ്രീക്വൻസി പരിധിയിൽ G" നെ സൂചിപ്പിക്കുന്ന നീലനിറത്തിലുള്ള കർവ് യഥാർത്ഥത്തിൽ ചുവന്ന നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള G' ന്റെ കർവിനേക്കാൾ ഉയർന്നാണ് നിൽക്കുന്നത് ആരംഭത്തിൽ മേല്പറഞ്ഞ ശൃംഖലയുടെ പ്രകൃതം വളരെയേറെ വിസ്കസ് ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ദൃശ്യമാകുന്ന അന്തിമ ഘടകം അഥവാ വിസ്കസ് ഘടകമെന്നത് സ്റ്റോറേജ് ഘടകവുമായി താദാത്മ്യം പുലർത്തുമ്പോൾ വളരെ സ്പഷ്ടമായാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ശൃംഖലയിൽ വളരെ മിതമായ നിരക്കിൽ മാത്രം ഡിഫോർമേഷൻ പ്രകടമാകുന്നതിനാൽ സിസ്റ്റത്തിൽ ഗണ്യമായ തോതിൽ ആന്തരിക പുനഃക്രമീകരണങ്ങൾ സംഭവിക്കുകയും പതിയെ സിസ്റ്റം വിരാമത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു നിശ്ചിത പരിധിക്കപ്പുറം ഫ്രീക്വൻസി ചെലുത്തുകയാണെങ്കിൽ ഡിഫോർമേഷന്റെ തോതിൽ വർദ്ധനവ് പ്രകടമാകുകയും മേല്പറഞ്ഞ വർദ്ധനവ് G' ന്റെ നിരക്കിൽ പ്രതിഫലിക്കുകയും അവ ക്രമേണ പൂരിതമാകുകയും ചെയ്യുന്നു ഇവിടെ സിസ്റ്റത്തിന് വിരാമത്തിലെത്താൻ മാത്രമുള്ള സമയം ലഭ്യമാകുന്നില്ല എന്നതാണ് വസ്തുത ഈ കാണുന്ന ക്രോസ്സ് ഓവർ പോയിന്റ് അക്ഷരാർത്ഥത്തിൽ ശൃംഖലകളിൽ അനുഭവപ്പെടുന്ന റിലാക്സേഷന്റെ സമയ പരിധിയെയാണ് സൂചിപ്പിക്കുന്നത് ECM ശൃംഖലകളിൽ കാണപ്പെടുന്ന ഹയലുറോണിക് ആസിഡ് ഇത്തരത്തിലുള്ള സ്വഭാവഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒന്നാണ് ജെല്ലുകളോ മറ്റേതെങ്കിലും എൻസൈമുകളുടെയോ സാന്നിധ്യത്തിൽ സിസ്റ്റം എപ്രകാരം പെരുമാറുന്നു എന്ന് അറിയാൻ നിങ്ങൾ തൽപരരാണെങ്കിൽ നിങ്ങൾക്ക് ടൈം സ്വീപ്പ് എന്ന പരീക്ഷണം നടത്താവുന്നതാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്ന സ്ട്രെയിനും ആംപ്ലിട്യുഡും കോൺസ്റ്റന്റായി നിലനിർത്തുകയും അതിലൂടെ G' G" എന്നീ ഘടകങ്ങളെ സമയത്തിനാധാരമായി ഗണിക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടെ ഈ കാണുന്നത് G' ആണ് ഉദാഹരണത്തിന് ഒരു ജെൽ പോളിമറൈസ് ചെയ്യുമ്പോൾ സമയബന്ധിതമായി G' ന്റെ നിരക്കിൽ വർദ്ധനവ് പ്രകടമാകുകയും G" പൂരിതമാകുകയും ചെയ്യുന്നുണ്ട് വളരെയധികം വിസ്കസായ ഒരു വസ്തു പോളിമറൈസ് ചെയ്യുമ്പോൾ അവയിൽ ഫിലമെന്റുകൾ രൂപപ്പെടുന്നതായും നമുക്ക് കാണാനാകുന്നു ആരംഭഘട്ടത്തിൽ G" ന്റെ നിരക്ക് പരമാവധി തുകയിലെത്തുകയും അവിടെ നിന്നും ക്രമേണ ശൃംഖല പോളിമറൈസ് ചെയ്യപ്പെടുന്നതോട് കൂടി മേല്പറഞ്ഞ നിരക്കിൽ പതിയെ കുറവ് ദൃശ്യമാകുകയും ചെയ്യുന്നു നോൺ ന്യൂട്ടോണിയൻ ശൃംഖലകളുടെ സ്വഭാവസവിശേഷതകൾ പഠിക്കുന്നതിനായി വിസ്കോസിറ്റിയെ നമുക്ക് ഷിയർ റേറ്റിന്റെ ഫങ്ഷനായി കണക്കാക്കാവുന്നതാണ് ഈ കാണുന്ന ഉദാഹരണത്തിൽ ഷിയർ റേറ്റിന്റെ മൂല്യം ഒരു നിശ്ചിതമായ നിരക്ക് എത്തുന്നത് വരെ വിസ്കോസിറ്റിയുടെ വില തുടക്കത്തിൽ കോൺസ്റ്റന്റായി നിലനിൽക്കുകയും ശേഷം പതിയെ താഴുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഫ്ലൂയിഡുകളെ ഷിയർ തിന്നിങ് ഫ്ലൂയിഡുകൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് γ µ വിസ്കോസിറ്റി എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത പ്രതികരണങ്ങൾ ലഭ്യമാകുന്നു ഈ കാണുന്നത് ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ് കാരണം ഇവിടെ µ വിന്റെ നിരക്ക് കോൺസ്റ്റന്റാണെന്ന് മാത്രമല്ല അത് γ നെ ആശ്രയിക്കുന്നുമില്ല എന്നതാണ് വസ്തുത എന്നാൽ ഈ കാണപ്പെടുന്ന മറ്റ് രണ്ട് ഫ്ലൂയിഡുകളും നോൺ ന്യൂട്ടോണിയൻ പ്രകൃതമുള്ള ഫ്ലൂയിഡുകളാണ് ഇതിനെ നമ്മൾ ഷിയർ തിന്നിങ് ഫ്ലൂയിഡെന്നും ഈ കാണുന്നതിനെ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡെന്നുമാണ് അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ വിസ്കോസിറ്റിയുടെ നിരക്കിന് സമയബന്ധിതമായി മാറ്റം സംഭവിക്കുന്നുണ്ട് ചുരുക്കിപ്പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒട്ടനേകം പരീക്ഷണങ്ങൾ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇതിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവുകൾ സ്ട്രെസ് റിലാക്സേഷൻ പരീക്ഷണങ്ങൾ ക്രീപ്പ് പരീക്ഷണങ്ങൾ മറ്റ് റിക്കവറി മാതൃകയിലുള്ള പരീക്ഷണങ്ങൾ ഫ്രീക്വൻസി സ്വീപ്പ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരീക്ഷണങ്ങൾ നമുക്ക് സുപരിചിതമായ തീർന്നിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി നിങ്ങൾക്ക് ആംപ്ലിട്യൂഡ് സ്വീപ്പ് എന്നൊരു പരീക്ഷണം കൂടി അവശേഷിക്കുന്നുണ്ട് ഫ്രീക്വൻസി സ്വീപ്പിനെ സംബന്ധിച്ചിടത്തോളം G' G" എന്നീ ഘടകങ്ങളുടെ നിരക്ക് നിർണ്ണയിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള ഫ്രീക്വൻസിയിലാണ് വ്യത്യാസം പ്രകടമാകുന്നത് ഇതേ മാർഗ്ഗം തന്നെയാണ് മേല്പറഞ്ഞ ആംപ്ലിട്യൂഡ് സ്വീപ്പിലും നാം പിന്തുടരുന്നത് ഇവിടെ നമ്മൾ ഫ്രീക്വൻസിയുടെ നിരക്ക് കോൺസ്റ്റന്റായി നിലനിർത്തുകയും അതിലൂടെ G' G" എന്നീ ഘടകങ്ങളുടെ മൂല്യം പ്രയോഗിക്കപ്പെടുന്ന സ്ട്രെയ്നിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു ഉത്തമ ആംപ്ലിട്യൂഡ് സ്വീപ്പിന്റെ ഉദാഹരണം തന്നെയെടുക്കാം ഇവിടെ നമുക്ക് γ യുണ്ട് മേല്പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ലഭ്യമാകുന്നത് ഇവിടെ G' G" എന്നീ ഘടകങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ലഭ്യമാകുന്ന കർവിനെയാണ് നമ്മൾ ആംപ്ലിട്യൂഡ് സ്വീപ്പെന്ന് വിശേഷിപ്പിക്കുന്നത് മേല്പറഞ്ഞ സാഹചര്യത്തിൽ ഒരു പരിധി കടന്ന് സ്ട്രെയിനിന്റെ നിരക്കിൽ വർദ്ധനവുണ്ടായാൽ G' ന്റെ മൂല്യം താഴുന്നതായി നമുക്ക് ദൃശ്യമാകുന്നു എന്നാൽ G' നേക്കാൾ താഴ്ന്ന നിരക്കിൽ നിന്നിരുന്ന G" ഒരു പരിധിക്കപ്പുറം പൊടുന്നനെ ഉയർന്ന നിരക്കിലേക്ക് നീങ്ങുന്നതായി നമുക്ക് കാണാനാകും എന്നതാണ് വസ്തുത എന്ത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സ്ട്രെയിൻ ഒരു പരിധിക്കപ്പുറം കടന്നാൽ ശൃംഖല തകർന്നടിയുകയും അതിന്റെ പരിണിത ഫലമായി G' ന്റെ മൂല്യത്തിൽ ഇടിവ് സംഭവിക്കുകയും ചെയ്യുന്നു എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത് അതെ സമയം വസ്തുവിന്റെ വിസ്കസ് പ്രകൃതത്തിൽ വർദ്ധനവ് പ്രകടമാകുകയും ഇത് G" ന്റെ നിരക്കിൽ ഗണ്യമായി പ്രതിഫലിക്കുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആംപ്ലിട്യൂഡ് സ്വീപ്പ് എന്ന പരീക്ഷണം ആംപ്ലിട്യൂഡ് സ്വീപ്പ് സാധ്യമാകുമെങ്കിൽ തീർച്ചയായും സാധ്യമായ മറ്റൊന്നാണ് ടൈം സ്വീപ്പ് ജനറേഷൻ കൈനെറ്റിക്സ് നിർണ്ണയിക്കുന്നതിനാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് അവസാനമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റേറ്റ് ഡിപെൻഡെന്റ് വിസ്കോസിറ്റിയാണ് റിയോളജി പഠനങ്ങളുടെ ഭാഗമായി ഒരു സാംപിൾ തയ്യാറാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് വിശദമായൊന്ന് ചർച്ച ചെയ്യാം അസ്ഥിപോലുള്ള സോളിഡ് ടിഷ്യൂസിനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അവയെ നമ്മൾ ആരംഭത്തിൽ തന്നെ ഡിസ്ക് രൂപത്തിലുള്ള ചെറിയ സാംപിളുകളായി കഷ്ണിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഉപകരണത്തിന്റെ താഴ്ഭാഗത്തെ പരന്ന പ്ലേറ്റിൽ ഇവയെ അടുക്കാൻ സാധിക്കുകയുള്ളു ഇവിടെ ഏതാണ്ട് 5 മുതൽ 25 മില്ലിമീറ്റർ വ്യാസമുള്ള 0 1 മുതൽ 5 മില്ലിമീറ്റർ വരെ ഘനമുള്ള സാംപിളുകളാണ് നമുക്കാവശ്യം മേല്പറഞ്ഞ സാഹചര്യത്തിൽ ദ്രവരൂപത്തിലുള്ള സാംപിളുകൾ ഉപയോഗപ്പെടുത്തുക പ്രയാസമാണ് എന്നതാണ് വസ്തുത ദ്രവരൂപത്തിലുള്ള ഒരു വസ്തു നിയതമായ ആകൃതിയിൽ ഒതുങ്ങി നിൽക്കാതെ ഒഴുകുന്ന ഒന്നായത് കൊണ്ടുതന്നെ ഒരു മില്ലിമീറ്റർ എന്ന പരിധിയിലേക്ക് അവയുടെ ഉയരം പരിമിതപ്പെടുത്തുക നമുക്ക് സാധ്യമല്ല എന്നതാണ് സാരം മേല്പറഞ്ഞ കാര്യത്തിനായി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം ജെല്ലിങ് പഠനങ്ങളുടെ ഭാഗമായി ടൈം സ്വീപ്പ് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ജെൽ മൊത്തമായി റിയോമീറ്റർ പ്ലേറ്റുകൾക്കിടയിൽ നിയതമായ ആകൃതിയിൽ രൂപപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ജെല്ലിന്റെ ആകൃതി സ്ട്രെസിന്റെ അഭാവത്തിൽ രൂപപ്പെട്ട ഒന്നാണ് ഇനി നമ്മൾ റിയോമീറ്ററിന്റെ കോണാകൃതിയുള്ള മുകൾ ഭാഗം പതിയെ ജെല്ലിന് മുകളിലായി ക്രമീകരിക്കുകയാണ് സാംപിളിനെ യഥായോഗ്യമായ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച് നിർത്തുന്നതിനായി നിയതമായ തോതിൽ ഒരു കംപ്രസ്സീവ് ഫോഴ്സ് ഇവിടെ നമ്മൾ ചെലുത്തേണ്ടതായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയാൽ നമുക്ക് പരീക്ഷണങ്ങളിലേക്ക് സധൈര്യം മുന്നോട്ട് നീങ്ങാം കഴിഞ്ഞ രണ്ട് ലെക്ച്ചറുകളിലായി കൊളാജെൻ ശൃംഖലകളുടെ വിവിധ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ധാരാളം സമയമെടുത്ത് നമ്മൾ വിശദമായ ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ചില നിരീക്ഷണങ്ങളിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അവയിൽ ഒന്നാണ് വസ്തുവിന്റെ കോൺസെൻട്രേഷൻ ചെലുത്തുന്ന സ്വാധീനം ഇവിടെ ഞാൻ കോൺസെൻട്രേഷനെ G' ന്റെ നിരക്കിന് എതിരായി പ്ലോട്ട് ചെയ്യുകയാണ് G' ന്റെ മൂല്യമെന്നത് കോൺസെൻട്രേഷന്റെ ക്യൂബിനോട് തുല്യമാണ് മറ്റ് ബയോപോളിമർ ശൃംഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺസെൻട്രേഷന്റെ നിരക്കെന്നത് Cx ആകുന്നു ഇവിടെ x ന്റെ വില എന്നത് സാധാരണഗതിയിൽ രണ്ടിന്റെയും മൂന്നിന്റെയും ഇടയിലായിരിക്കും നോൺ ക്രോസ്സ് ലിങ്കഡ് കൊളാജെൻ ശൃംഖലകളുടെ സ്ട്രെയിൻ സ്റ്റിഫെനിങ് എന്ന സ്വഭാവ വൈഭവം നമുക്കിവിടെ സദൃശ്യമാകുന്നു ഇവിടെ G' ന്റെ നിരക്കിൽ ഗണ്യമായ വ്യതിയാനം പ്രകടമാകുന്നുണ്ട് ഇവിടെ ഞാൻ G' ന്റെ തുകയെ സ്ട്രെയ്നിന്റെ ഫങ്ഷനായി രേഖപ്പെടുത്തുകയാണ് സ്ട്രെയ്നിന്റെ നിരക്ക് ഒരു പരിധിക്കപ്പുറം കടന്നാൽ സ്വാഭാവികമായും കർവ് ഈ കാണുന്ന രീതിയിൽ വർദ്ധനവ് കാണിക്കുന്നു അതുപോലെ തന്നെ കോൺസെൻട്രേഷന്റെ അളവ് കൂടിയാലും കർവിൽ ഗണ്യമായ ഉയർച്ച പ്രകടമാകുന്നു മേല്പറഞ്ഞ പ്രതിഭാസമാണ് സ്ട്രെയിൻ സ്റ്റിഫെനിങ് ഫോഴ്സിന്റെ പ്രഭാവമുണ്ടാകുന്ന ദിശയിൽ വിന്യസിക്കുന വ്യക്തിഗത ഫൈബ്രിലുകളാണ് യഥാർത്ഥത്തിൽ മേല്പറഞ്ഞ സ്ട്രെയിൻ സ്റ്റിഫെനിങ് എന്ന പ്രക്രിയക്ക് നിധാനമാകുന്നത് ശൃംഖലയിൽ ഒരു തവണ പുതിയ ദിശയിൽ അലൈൻമെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർവ്വഘടനയിലേക്ക് ഒരു മടക്കം സാധ്യമല്ല എന്ന് സാരം ഘടനയിൽ രൂപാന്തരം അനുഭവപ്പെടുകയും പിന്നീട് ശൃംഖല വിരാമത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിപോകുന്നുണ്ടോയെന്ന് നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് ശൃംഖലകളിൽ മേല്പറഞ്ഞ രീതിയിലുള്ള ഇടപെടൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുവാൻ സാധിക്കും ശൃംഖലകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നോൺ ലീനിയർ സ്റ്റിഫെനിങ് എന്നാൽ എന്താണ് പ്രായോഗികമായ തലത്തിൽ പരിശോധന നടത്തുമ്പോൾ ഇവയുടെ പ്രസക്തിയെന്താണ് സംയോജിത കോശങ്ങളിൽ ശക്തമായ ഫോഴ്സിന്റെ പ്രഭാവമുണ്ടാകുമ്പോൾ അവയിലെ ശൃംഖലകളിൽ സ്റ്റിഫ്നെസ്സിന്റെ നിരക്കിൽ ഗണ്യമായ വർദ്ധനവ് ദൃശ്യമാകുന്നു ആയതിനാൽ കോശങ്ങൾ രൂപാന്തരമുണ്ടാകുന്നതിൽ നിന്നും രക്ഷപെടുന്നതായി നമുക്ക് കാണാനാകും സർവ്വ സാധാരണമായി കോശങ്ങളിൽ പ്രകടമാകുന്ന ഒരു പ്രക്രിയയാണിത് അതിരൂക്ഷമായ ലോഡിങ്ങിന്റെ പരിണിത ഫലമായി കോശങ്ങളിൽ സംഭവിക്കുന്ന കേടുപാടുകൾ പ്രതിരോധിക്കാനുള്ള ഒരു പ്രക്രിയയായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കോശങ്ങൾക്ക് നിയതമായ സംരക്ഷണം നൽകുന്നതിൽ മേല്പറഞ്ഞ പ്രക്രിയയ്ക്ക് ഗണ്യമായ പങ്ക് വഹിക്കാനുണ്ട് എന്നതാണ് വസ്തുത അടുത്ത ക്ലാസിൽ നോൺ ലീനിയർ സ്റ്റിഫെനിങ് എന്ന പ്രക്രിയയെ കുറിച്ച് ഒരു സിംഗിൾ പ്രോട്ടീനിന്റെ നിലയിൽ നിന്നും വളരെ വിശദമായി തന്നെ നമുക്ക് ചർച്ച നടത്താം പ്രസ്തുത ലെക്ച്ചറിലെ ചർച്ചകൾക്ക് ഞാൻ ഇവിടെ വിരാമമിടുകയാണ്